നമസ്കാരം സെക്യൂർ സിസ്റ്റം എഞ്ചിനീയറിംഗിന്റെ ഈ ക്ലാസ്സിലേക് സ്വാഗതം എന്താണു ASLR എന്നും റീലൊക്കേറ്റബിൾ ലൈബ്രറീസുമായി ASLR എങ്ങിനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും ഡാറ്റ റീലൊക്കേഷൻ നടത്താനുള്ള രണ്ടു മാർഗ്ഗങ്ങളും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാണുകയുണ്ടായി കൂടാതെ ഗ്ലോബൽ ഡാറ്റയുടെ ലോഡ് ടൈം റീലൊക്കേഷനും അത് നടത്തുന്നതിൽ GOT ടേബിളിന്റെ ഉപയോഗവും നമ്മൾ കണ്ടു ഈ ക്ലാസ്സിൽ നമ്മൾ ഫങ്ഷൻസിനെപ്പറ്റിയും പ്രത്യേകിച്ചും ലൈബ്രറിയിൽ ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ അവയെ എങ്ങിനെ റീലൊക്കേറ്റബിൾ ആക്കിമാറ്റാം എന്നുമാണ് പഠിക്കാൻ പോകുന്നത് ഡാറ്റ റീലോക്കറ്റിബിൾ ആക്കിയ അതേതരത്തിൽ നമുക്കു ഫങ്ഷൻസും റീലൊക്കേറ്റബിൾ ആക്കുവാൻ സാധിക്കും ഉദാഹരണത്തിന് എപ്പോഴൊക്കെയാണോ ഒരു ഫങ്ഷനെ കോൾ ചെയ്യുന്നത് അപ്പോഴൊക്കെ GOT ടേബിളിൽനിന്നാണ് നമുക് അതിന്റെ ആക്ച്വൽ അഡ്രസ് ലഭിക്കുന്നത് ഡാറ്റ കൈകാര്യം ചെയ്തപോലെതന്നെ നമുക്ക് ഫങ്ഷൻസും കൈകാര്യം ചെയ്യാൻ സാധിക്കും അതിനായി ഒരു GOT ടേബിളിലേക് നമ്മൾ ഫങ്ഷന്റെ ആക്ച്വൽ അഡ്രസ് രേഖപ്പെടുത്തിവക്കുന്നു എപ്പോഴാണ് ഒരു ഫങ്ഷനെ കോൾ ചെയ്യുന്നത് ആ സമയത് അതിന്റെ ആക്ച്വൽ അഡ്രസ് നമുക്ക് GOT ടേബിളിൽ നിന്നു ലഭിക്കുകയും പിന്നീടുള്ള എക്സിക്യൂഷൻ ആ അഡ്രസിലേക് മാറുകയും ചെയ്യുന്നു ഒരു ലൈബ്രറി ഒരു പ്രോസസ്സിന്റെ അഡ്രസ് സ്പേസിലേക് ലോഡ് ചെയ്യുമ്പോഴാണ് GOT ടേബിളിലേക് ആ ലൈബ്രറിയിലെ ഫങ്ഷൻസിന്റെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തുന്നത് അപ്പോൾ മുതൽ ആയിരിക്കും ഫങ്ഷനിന്റെ ആക്ച്വൽ അഡ്രസ് അതിൽ ലഭ്യമാകുന്നത് ഒരു ലൈബ്രറിയിൽ ഗ്ലോബൽ ഡാറ്റയേക്കാൾ വളരെ കൂടുതൽ ഫങ്ഷൻസ് ഉള്ളതുകൊണ്ടും ഒരു ലൈബ്രറിയിലെ മിക്കവാറും ഫങ്ഷൻസും നമ്മൾ ഉപയോഗിക്കുന്നില്ലാത്തതുകൊണ്ടും ഡാറ്റയ്ക് വേണ്ടി ഉപയോഗിച്ചതുപോലെ ഒരു GOT ടേബിൾ ഫങ്ഷൻസിനു ഉപയോഗിക്കുന്നത് ഒരുപാട് സമയനഷ്ടം ഉണ്ടാക്കും ഉദാഹരണത്തിന് നൂറോളം ഫങ്ഷൻസ് ഉള്ള Libc എന്ന ലൈബ്രറിയിലെ രണ്ടോ മൂന്നോ ഫങ്ഷൻസ് മാത്രമാണ് നിങ്ങൾ സാധാരണ ഉപയോഗിക്കുക അതു കൊണ്ടുതന്നെ ലോഡ് ചെയ്യുന്ന സമയത് എല്ലാ ഫങ്ഷൻസിന്റെയും വിശദാംശങ്ങൾ കണ്ടുപിടിച്ചു രേഖപ്പെടുത്തുക എന്നത് അർഥശൂന്യമായ പ്രവർത്തിയാണ് ആയതിനാൽ ലേസി ബൈൻഡിങ് എന്നൊരു സമ്പ്രദായമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഇതിൽ ഒരു ഫങ്ഷനെ എപ്പോഴാണോ വിളിക്കുന്നത് അപ്പോൾ മാത്രമായിരിക്കും അതിന്റെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തുന്നത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ലേസി ബൈൻഡിങ്ങിൽ ഒരു ഫങ്ഷൻ വിളിക്കുന്നത് വരെ അതിന്റെ ബൈൻഡിങ് വൈകിപ്പിക്കുന്നു ഒരു ഡബിൾ ഇൻഡയറക്ഷൻ സംവിധാനമാണുപയോഗിച്ചാണ് ഇത് സാധ്യമാക്കുന്നത് അതിനായി മുൻപ് പറഞ്ഞ GOT ടേബിൾ കൂടാതെ പ്രൊസീജിയർ ലിങ്കേജ് ടേബിൾ അഥവാ PLT ടേബിൾ കൂടി ഉപയോഗിക്കുന്നു ഒരു ഫങ്ഷൻ കോൾ എങ്ങിനെയാണ് പ്രാവർത്തികമാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഉദാഹരണത്തിന് printf എന്നൊരു ഫങ്ഷൻ നമ്മുടെ ലൈബ്രറിയിൽ ഉണ്ട് എന്ന് വിചാരിക്കുക ഈ printf ഫങ്ഷൻ കോൾ ചെയ്യപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ printfPLT ആണ് കോൾ ചെയ്യപ്പെടുന്നത് അതായത് കോൾ ചെയ്യപ്പെടുന്ന ഫങ്ഷൻ func ഏത് തന്നെ ആയാലും യഥാർത്ഥത്തിൽ കോൾ ചെയ്യപ്പെടുന്നത് funcPLT ആയിരിക്കും PLT ടേബിളിന്റെ ഘടന നമുക്കൊന്ന് നോക്കാം ലൈബ്രറിയിൽ ഉള്ള എല്ലാ ഫങ്ഷൻസിന്റെ വിശദാംശങ്ങളും PLT യിൽ രേഖപ്പെടുത്തിയിരിക്കും ഉദാഹരണത്തിന് funcPLTയുടെ വിശദാംശങ്ങൾ നോക്കുക ഇതിനു മൂന്നു ഭാഗങ്ങൾ ഉണ്ടായിരിക്കും ആദ്യത്തേത് ഒരു ഇൻഡയറക്ട് ജമ്പ് രണ്ടാമത് ഒരു പ്രീപെയർ റിസോൾവെർ അവസാനത്തേത് PLT0 യിലേക്കുള്ള ഒരു ജമ്പ് ഇനി നമുക്ക് funcPLT യുടെ പ്രവർത്തനം എങ്ങിനെയാണ് എന്ന് പഠിക്കാം func എന്ന ഫങ്ഷന്റെ കോൾ നെ funcPLT യുടെ കോൾ ആക്കി കംപൈലർ മാറ്റും എന്ന് നേരത്തെ പറഞ്ഞുവല്ലോ ഇനി താഴെ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യും GOT യിലേ അഡ്രസ്സിനനുസരിച്ചുള്ള ഒരു ഇൻഡയറക്ട് ജംപ് ആണ് ആദ്യത്തേത് ഈ അഡ്രസ് ലോഡ് ചെയ്ത കഴിഞ്ഞാൽ അടുത്തത് പ്രിപ്പെയർ റിസോൾവെർ ആണ് ഇവിടെ ശരിക്കും എന്താണ് സംഭവിക്കുന്നതെന്നുവച്ചാൽ ഒരു ഇൻഡയറക്ട് ജംപ് നടക്കുമ്പോൾ ലോഡ് ചെയ്തിരിക്കുന്ന അഡ്ഡ്രസ്സിലേക്കാണ് പോകുന്നത് മറ്റൊരുതരത്തിൽ പറഞ്ഞാൽ ആദ്യത്തെ ജംപ് തൊട്ടടുത്ത ലൈനിലേക്കായിരിക്കും അതുകൊണ്ട് തൊട്ടടുത്ത ലൈനിലേക് ജമ്പ് ചെയ്യുന്നു പ്രിപ്പെയർ റിസോൾവെറിനെ കോൾ ചെയ്യുന്നു അതിനു ശേഷം റിസോൾവെറിനെ കോൾ ചെയ്യുന്നതിനായി PLT0 യിലേക് ജംപ് ചെയ്യുന്നു റിസോൾവെർ ആണ് func ഫങ്ഷന്റെ ആക്ച്വൽ അഡ്രസ് കണ്ടുപിടിച്ച് GOT ൽ രേഖപ്പെടുത്തുന്നത് അങ്ങിനെ റിസോൾവെർ കോൾ ചെയ്ത കഴിയുമ്പോൾ ആദ്യം func ന്റെ ആക്ച്വൽ അഡ്രസ് GOT ൽ രേഖപ്പെടുത്തുന്നു അതിനു ശേഷം ഫങ്ഷൻ കോൾ ചെയ്യപ്പെടുന്നു അതായത് func ന്റെ ആദ്യത്തെ കോൾ funcPLT യെ കോൾ ചെയ്യുന്നു അത് പ്രിപ്പെയർ റിസോൾവെർ നെയും അതിനു ശേഷം റിസോൾവെറിനെയും കോൾ ചെയ്യുന്നു റിസോൾവെർ func ന്റെ ആക്ച്വൽ അഡ്രസ് കണ്ടുപിടിച്ച് GOT ൽ രേഖപ്പെടുത്തിയതിനു ശേഷം ഫങ്ഷനെ കോൾ ചെയ്യുന്നു func ഫങ്ഷന്റെ പിന്നീടുള്ള കോളുകൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം അതായത് രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തേയും അഞ്ചാമത്തെയും ഒക്കെ കോളുകളിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ func എന്ന ഫങ്ഷന്റെ കോളിനെ funcPLT യുടെ കോൾ ആക്കി കംപൈലർ ആദ്യമേ മാറ്റിയിട്ടുണ്ടാവും അതുകൊണ്ട് എക്സിക്യൂഷൻ ഈ PLT യിൽ ആണ് നടക്കേണ്ടത് ഇതിൽ ആദ്യത്തെ പ്രസ്താവന GOT യിലെ വിവരത്തിനനുസരിച്ചുള്ള ഒരു ഇൻഡയറക്ട് ജംപ് ആയിരിക്കും ഇവിടെ യഥാർത്ഥത്തിൽ എക്സിക്യൂഷന്റെ തുടക്കത്തിൽത്തന്നെ func ന്റെ ആക്ച്വൽ അഡ്രസ് ലഭിക്കത്തക്ക വിധത്തിൽ GOT യിലെ വിവരങ്ങൾ മാറ്റിയെഴുതുകയാണ് ഉണ്ടായത് അതുകൊണ്ട് GOT ഇത് രേഖപ്പെടുത്തിയിരിക്കുന്ന അഡ്രസിലേക്കായിരിക്കും ഇവിടെ ജംപ് നടക്കുക അതായത് യഥാർഥ ഫങ്ഷൻ പിന്നീട് കോൾ ചെയ്യപ്പെടുമ്പോഴൊന്നും റിസോൾവെർ കോൾ ചെയ്യപ്പെടുന്നില്ല നേരെമറിച്ച് ഫങ്ഷൻ കോഡിലേക്ക് നേരിട്ടുള്ള ജമ്പ് ആണുണ്ടാവുക അതുകൊണ്ട്തന്നെ ആദ്യ കോളിൽ മാത്രമാണ് റിസോൾവെർ കോൾ ചെയ്ത് ആക്ച്വൽ അഡ്രസ് കണ്ടുപിടിക്കുക എന്നുള്ള അധിക ജോലി ഉണ്ടായിരിക്കുന്നത് പിന്നീടങ്ങോട്ട് ആക്ച്വൽ അഡ്രസ്സിലേക്കുള്ള ഒരു ജംമ്പ് മാത്രമേ ആവശ്യമായി വരുന്നുള്ളൂ ഇനി നമുക് PLT യുടെ ഒരു ഉദാഹരണം നോക്കാം നമ്മൾ എഴുതിയ ലൈബ്രറിയിൽനിന്നുതന്നെ തുടങ്ങാം ഈ ലൈബ്രറിയിൽ set mylib int mylib int get mylib int എന്നീ മൂന്നു ഫങ്ഷൻസ് ആണുള്ളത് ഇത് fpic flag ഉപയോഗിച്ച് കംപൈൽ ചെയ്ത് libmylib pic so എന്ന ലൈബ്രറി ഉണ്ടാക്കിയെടുക്കുന്നു increment mylib int എന്ന ഫങ്ഷന്റെ ഒബ്ജക്ട് ഡംപ് നടത്തുമ്പോൾ set mylib int ലേക്കുള്ള കോൾ set mylib intPLT യിലേക് മാറ്റപ്പെടുന്നു അതായത് മുൻപ് പറഞ്ഞതുപോലെ കംപൈലെർ function എന്ന ഒരു ഫങ്ഷൻ കോളിനെ functionPLT എന്ന കോൾ ആക്കി മാറ്റിയെഴുതുന്നു നമുക്കു set mylib int എന്ന ഫങ്ഷനെ കുറച്ചുകൂടി വിശദമായി പരിശോധിക്കാം ഈ ഫങ്ഷനെ ഡിസ്അസ്സെംബിൾ ചെയ്താൽ set mylib int എന്നത് 0x3BC എന്ന അഡ്രസ്സിൽ ആണെന്നു കാണാം 0x3BC എന്നത് PLT ആയതിനാൽ set mylib int PLT യിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നു എന്ന് മനസ്സിലാക്കാം ഇതിനും മേല്പറഞ്ഞതുപോലെ മൂന്നു ഭാഗങ്ങൾ ആണ് ഉണ്ടാവുക ആദ്യമായി ഇതിലെ ഇൻഡയറക്ട് ജംപ് GOT ടേബിളിലെ ഒരു 16 ബൈറ്റ് ഓഫ്സെറ്റിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഈ 16 ബൈറ്റ് ഓഫ്സെറ്റ് set mylib int ഫങ്ഷന് യോജിക്കുന്നതായിരിക്കും അടുത്തതായി റിസോൾവെറിനു വേണ്ടിയുള്ള ആർഗ്യുമെന്റ്സ് ഉണ്ടാക്കുകയും അതിനുശേഷം റിസോൾവെറിലേക്കുള്ള ജെമ്പും ആണ് നടക്കുക കംപൈലേഷൻ സമയത്ത് GOT ടേബിളിന്റെ വിശദാംശങ്ങൾൾ readelf - x plt libmylib pic so എന്ന കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും ഈ കമാന്റിന്റെ ഔട്ട്പുട്ട് plt എന്ന PLT ടേബിൾ ആണ് ഇവിടെ ഈ ഫങ്ഷന്റെ GOT ടേബിൾ നമുക് ഈ കമാൻഡ് ഉപയോഗിച്ച കാണുവാൻൻ സാധിക്കും ഇതിൽ കാണുന്നതനുസരിച് 16 ബൈറ്റ്സ് ഓഫ്സെറ്റിൽ c203 ആണുള്ളത് അത് ലിറ്റിൽ എൻഡിയൻ സമ്പ്രദായത്തിൽ 0x3c2 നെ പ്രതിനിധീകരിക്കുന്നു അതിനാൽ ഇത് തുടക്കത്തിൽ PLT ടേബിളിലെ അടുത്ത ഇൻസ്ട്രക്ഷനിലേക്ക് പോയിന്റ് ചെയ്യുന്നു അതായത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുവച്ചാൽ ഇൻഡയറക്ട് ജംപ് GOT ടേബിളിലെ ഒരു 16 ബൈറ്റ് ഓഫ്സെറ്റിൽ കാണിച്ചിരിക്കുന്ന 3c2 എന്ന അഡ്രസിലേക് ജംപ് ചെയ്യുന്നു അതുകൊണ്ട് set mylib int ന്റെ ആദ്യത്തെ കോളിൽത്തന്നെ അടുത്ത ഇൻസ്ട്രക്ഷനും റിസോൾവെറിലേക്കുള്ള കോളും ആയ പുഷ് 0x8 എന്ന ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു അങ്ങിനെ റിസോൾവെർ എക്സിക്യൂട്ട് ചെയ്യപ്പെടുകയും അത് ഈ അഡ്രസ്സിനെ set mylib int ഫങ്ഷന്റെ അഡ്രസ് ആക്കി മാറ്റുകയും ചെയ്യുന്നു അതിനുശേഷം set mylib int ലേക്കുള്ള കോളുകൾ എല്ലാം കൃത്യമായി GOT PLT ടേബിളിൽ ഉള്ള അതിന്റെ ശരിയായ അഡ്രെസ്സിലേക്ക്തന്നെ ജംപ് ചെയ്യുന്നു അങ്ങിനെ ASLR ന്റെ പ്രവർത്തനത്തിന് കെർണലിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതിന്റെ ആവശ്യകത നമ്മൾ കണ്ടു ലൈബ്രറികൾ എല്ലാം പല പല സ്ഥാനങ്ങളിൽ ആയി ലോഡ് ചെയ്യുന്നതിനും അവയെ ലോഡിങ് സമയത്തോ PIC രീതിയിലോ റീലൊക്കേറ്റബിൾ ആക്കുന്നതിനും ഇത് ആവശ്യമാണ് അതുകൊണ്ടുതന്നെ അടുത്ത കാലങ്ങളിലായി ASLR നെ ബെപാസ്സ് ചെയ്ത പല അറ്റാക്കുകളും ഉണ്ടാകുന്നുണ്ട് സിസ്റ്റത്തിന്റെ ദൌർബല്യങ്ങൾ മനസ്സിലാക്കുന്ന അറ്റാക്കറിന് ASLR പ്രവർത്തിക്കുന്ന സിസ്റ്റത്തിൽ ആയാലും അവരുടേതായിട്ടുള്ള കാമാൻഡുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും ASLR നെ ബെപാസ്സ് ചെയ്യാൻ പല രീതികൾ ഉണ്ട് നാലെണ്ണം ഇവിടെ പറഞ്ഞു ASLR നെ മറികടക്കാൻ ഉപയോഗിക്കാവുന്ന ഒരു രീതി എല്ലാ സാധ്യതകളും പരിശോധിക്കുന്ന ഒരു ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ആണ് വീർച്വൽ അഡ്രസ് സ്പേസ് എവിടാണെന്നു കണ്ടുപിടിച്ച ഓഫ്സെറ്റ് അതിനനുസരിച്ച് ക്രമീകരിച്ചു നടത്തുന്ന ടൈമിംഗ് അറ്റാക്കുകളും ഉണ്ട് ലൈബ്രറി എവിടാണ് ലോഡ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ ഓഫ്സെറ്റ് അതിനനുസരിച്ച് ക്രമീകരിച്ച് അറ്റാക്കറിനു ചൂഷണങ്ങൾ നടത്താനാകും റിട്ടൺ ടു PLT ഓവർ റൈയ്റ്റിംഗ് ദി GOT മുതലായ അറ്റാക്കുകളും ഈ കൂട്ടത്തിൽപെടുന്നു ഈ പറഞ്ഞ അറ്റാക്കുകൾ എല്ലാം തന്നെ വളരെ സമീപകാലത്ത് ഉണ്ടായിട്ടുള്ളവയാണ് ഈ കോഴ്സിൽ നമ്മൾ ഇതിന്റെ വിശദാംശങ്ങളിലേക് കടക്കുന്നില്ല താല്പര്യം ഉള്ളവർക്കു ഇത്തരത്തിലുള്ള അറ്റാക്കുകൾ എങ്ങിനെ ഉണ്ടാകുന്നു എന്ന് പ്രതിപാദിക്കുന്ന ധാരാളം ഓൺലൈൻ കോഴ്സുകൾ ലഭ്യമാണ് നന്ദി